അടുത്തതായി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തരം ഇന്ഡക്സിനെക്കുറിച്ച് പഠിക്കാം അത് ഒരു ട്രീ അടിസ്ഥാനമാക്കിയുള്ള ഇൻഡക്സ് ആണ് ബി ട്രീ ബി ട്രീ B tree എന്നീ രണ്ട് പ്രധാന സ്ട്രക്ച്ചറുകൾ നമ്മൾ ഇതിൽ ഉള്പെടുത്തുന്നതാണ് അതിനാൽ ഇവ ഡിസ്കിലെ ഡാറ്റ ഇൻഡക്സ് ചെയ്യുന്നതിനുള്ളതാണ് അതിനാൽ ഇവ സെക്കന്ററി സ്റ്റോറേജ് ആണ് അല്ലെങ്കിൽ ഡിസ്കിനെ ചിലപ്പോൾ സെക്കന്ററി സ്റ്റോറേജ് ആണ് എന്ന് വിളിക്കുന്നു അതിനാൽ ഇവ ഡിസ്ക് അവെയർ ഡിസൈനുകൾ ആണ് ഒരു ബൈനറി സെർച്ച് ട്രീ ഉപയോഗിച്ച് നിങ്ങൾക്ക് അൽപ്പം പരിചയമുണ്ടെന്ന് ഞാൻ അനുമാനിക്കുന്നു അതിനാൽ ഇത് പ്രധാനമായും ഡിസ്കിനായി നിർമ്മിച്ച ഒരു ബൈനറി സെർച്ച് ട്രീ ആണ് അതിനാൽ ഓർത്തെടുക്കുകയാണെങ്കിൽ ഒരു ബൈനറി സെർച്ച് ട്രീയുടെ പ്രധാന രൂപകൽപ്പന ഒരു നോഡുമായി ബന്ധപ്പെട്ടതാണ് ഡാറ്റ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കപ്പെടുകയും ആ നോഡിന്റെ ലെഫ്റ് സബ്ട്രീ ലെഫ്റ് ചൈൽഡിന് നോഡിൽ സംഭരിച്ചിരിക്കുന്ന കീയേക്കാൾ കുറവുള്ള എല്ലാ ഡാറ്റയും ലഭിക്കുന്നു കൂടാതെ റൈറ്റ് സബ്ട്രീ അല്ലെങ്കിൽ റൈറ്റ് ചൈൽഡിന് നോഡിൽ സംഭരിച്ചിരിക്കുന്ന കീയേക്കാൾ വലുപ്പമുള്ള എല്ലാ ഡാറ്റയും ലഭിക്കും അതിനാൽ അതാണ് ബൈനറി സെർച്ച് ട്രീ നമ്മൾ ബിഎസ്ടി മേൽ നിർമ്മിക്കും അതിനാൽ അതാണ് ബൈനറി സെർച്ച് ട്രീ ബി ട്രീയും ബി ട്രീയും B tree അതിനുമേൽ നിർമ്മിക്കുന്നു അത് അങ്ങനെയാണ് സംഭരിക്കപ്പെടുന്നത് അതിനാൽ ബി ട്രീ നമുക്ക് എടുക്കാം ബി ട്രീ ഒരു ബി ട്രീക്ക് അനുയോജ്യമായ ഒരു ഓർഡർ ഉണ്ട് ഒരു പ്രത്യേക ഓർഡറിന്റെ ബി ട്രീ ഓർഡർ എന്താണെന്ന് നമുക്ക് നോക്കാം ഓർഡർ ക്കു ഇനിപ്പറയുന്ന ഗുണവിശേഷങ്ങൾ ഉണ്ടെന്ന് കരുതുക ആദ്യമായി ബി ട്രീ സന്തുലിതമായ ഘടനയുള്ളതാണ് എല്ലാ ഇലകളും അവസാന നിലയിലും അവസാന നിലയിലുമാണ് അതിനാൽ സന്തുലിതമായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ ഇലകളും ഒരേ നിലയിലാണ് അതിനാൽ ഇത് സന്തുലിതമാണ് പിന്നെ ഒരു റൂട്ട് നോഡിന് കുറഞ്ഞത് ഒരു കീ ഉണ്ടായിരിക്കണം അതിൽ തീർച്ചയായും ഒരു കീയെങ്കിലും അടങ്ങിയിരിക്കണം മറ്റെല്ലാ നോഡുകളിലും മുതൽ വരെയുള്ള കീകൾ ഉണ്ടാകും അതിനാൽ അതിനു മുതൽ വരെയുള്ള എണ്ണം കീകൾ ഉണ്ടാകും കീകളുള്ള ഒരു നോഡിന് ചൈൽഡ് പോയിന്ററുകൾ ഉണ്ടാകും അതിനാൽ ഒരു ബി ട്രീയുടെ ആന്തരിക നോഡ് ഡിസൈൻ ഇനിപ്പറയുന്നവ പോലെ കാണപ്പെടുന്നു അവിടെ ഒരു കീ ഉണ്ട് നമുക്ക് എന്ന് പറയാം ഇപ്പോൾ ന് അനുബന്ധമായി ഒരു ചൈൽഡ് പോയിന്റർ ഉണ്ട് തുടർന്ന് ന് അനുയോജ്യമായ ഒരു റെക്കോർഡ് പോയിന്റർ ഉണ്ട് തുടർന്ന് ഒരു ചൈൽഡ് പോയിന്റർ ഉണ്ട് അതിനാൽ ഇത് തുടരുന്നു അതിനാൽ ചൈൽഡ് പോയിന്റർ തുടർന്ന് ഒരു ഉണ്ട് പിന്നെ ഒരു റെക്കോർഡ് പോയിന്റർ ഉണ്ട് തുടർന്ന് ഒരു ചൈൽഡ് പോയിന്റർ തുടങ്ങിയവ ഏകദേശം ഉണ്ടാകുന്നതുവരെ ഇത് ഇങ്ങനെ പോകുന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ ഒരു റെക്കോർഡ് പോയിന്റർ ഉണ്ട് തുടർന്ന് ഒരു ചൈൽഡ് പോയിന്റർ ഉണ്ട് അതിനാൽ ഇതാണ് ഘടന ഇത് കീകളുള്ള ബി ട്രീ ഇന്റെർണൽ നോഡ് ആണ് അതിനാൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം അതിനാൽ ഈ കീകൾ ഉണ്ട് ഇത് തുടങ്ങി വരെയാണ് ഓരോ കീയ്ക്കും അനുയോജ്യമായി റെക്കോർഡ് പോയിന്റർ ഉണ്ട് അതിനാൽ അതിനടുത്തായി സംഭരിച്ചിരിക്കുന്ന അനുബന്ധ കീയുടെ റെക്കോർഡ് സംഭരിക്കുന്ന ഒരു പോയിന്റർ ആണിത് അതിനാൽ ഈ അത്തരം റെക്കോർഡ് പോയിന്റർ കീ പോയിന്റർ ഉണ്ട് തുടർന്ന് ചൈൽഡ് പോയിന്ററുകളും ചൈൽഡ് പോയിന്ററുകൾ ഇത് ബിഎസ്ടിയുടെ അതേ ആശയം പിന്തുടരുന്നു അതിനാൽ ഈ ചൈൽഡ് പോയിന്ററിൽ ഈ ൽ കുറവുള്ള എല്ലാ കീകളും അടങ്ങിയിരിക്കുന്നു ഈ ചൈൽഡ് പോയിന്ററിൽ നേക്കാൾ വലുതും എന്നാൽ ൽ കുറവുള്ളതുമായ എല്ലാ കീകളും അടങ്ങിയിരിക്കുന്നു അതിനാൽ അങ്ങനെ തുടർന്ന് പോകുന്നു അതിനാൽ ഇത് നേക്കാൾ കുറവാണ് കൂടാതെ നേക്കാൾ വലുതായതെല്ലാം ഇതാണ് സാങ്കേതികമായി ശരിയാണ് ഇത് ലെസ്സ് താൻ ഈക്വൽ ടു അങ്ങനെയായിരിക്കണം പക്ഷേ അതാണ് ഒരു ബി ട്രീയുടെ B tree പൂർണമായ ആശയം അത് ആ മുഴുവൻ രീതിയിലും ക്രമീകരിച്ചിരിക്കുന്നു തുടർന്ന് ബി ട്രീയുടെ ഭാഗമായി സൂചിപ്പിച്ചിട്ടുള്ള ഒരു തീറ്റ എന്ന ഓർഡർ ഉണ്ട് അതിനാൽ ഓരോ ആന്തരിക നോഡിനും മുതൽ വരെയുള്ള കീകൾ ഉണ്ടായിരിക്കണം അത് അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല കാര്യങ്ങളേക്കാൾ ൽ കുറവ് പാടില്ല അഥവാ കീ അതിന് കീകളിൽ കൂടുതൽ ഉണ്ടാകരുത് അതിനാൽ ബ്രാഞ്ചിംഗ് ഫാക്ടർ അല്ലെങ്കിൽ ഒരു ബി ട്രീയുടെ B tree ഫാൻ ഔട്ട് എന്നൊരു പദം ഉണ്ട് അതിനാൽ ഇതിന് മുതൽ വരെ കീകൾ ഉണ്ടായിരിക്കണം അതിനാൽ ബ്രാഞ്ച് ഔട്ട് കുറഞ്ഞത് ആയിരിക്കണം അത് പരമാവധി ആണ് അതിനാൽ ഒരു നോഡിന് ഉണ്ടാകാവുന്ന ചിൽഡ്രൻറെ എണ്ണമാണ് ഫാൻ ഔട്ട് അല്ലെങ്കിൽ ബ്രാഞ്ചിംഗ് ഫാക്ടർ അതിനാൽ കാര്യങ്ങളുടെ ഈ സാഹചര്യത്തിൽ ചിൽഡ്രൻ ഉണ്ട് അതിനാൽ അത് ഒരു ബി ട്രീ ആണ് ഇപ്പോൾ നമുക്ക് ഒരു ബി ട്രീ B tree എന്നതിലേക്ക് പോകാം ബി ട്രീ B tree വളരെ സമാനമാണ് പക്ഷേ ഒരു പ്രധാന വ്യത്യാസത്തോടെ അതിനാൽ ബി ട്രീ B tree വളരെ സമാനമായ ഘടനയാണ് പക്ഷേ ബി ട്രീയിൽ നിന്ന് ഒരു പ്രധാന വ്യത്യാസമുണ്ട് അതിനാൽ ഒരാൾ ഒരു ബി ട്രീയുടെ B tree ഇന്റെർണൽ നോഡ് സ്ട്രക്ച്ചർ വരച്ചാൽ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയും അതിനാൽ ഇത് ഒരു ആണ് ഇതിന് അനുബന്ധമായി ഒരു ഉണ്ട് ശേഷം അവിടെ ഒരു റെക്കോർഡ് പോയിന്റർ ഇല്ല അതിനാൽ അത് വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ് അതിനാൽ ഇതെല്ലാം തുടരുന്നു തുടർന്ന് ഉണ്ട് തുടർന്ന് ഒരു ചൈൽഡ് പോയിന്റർ ഉണ്ട് തുടർന്ന് ബി ട്രീയിലെ B tree ഒരു കീയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് പോയിന്റർ ഇല്ല അതിനാൽ ഒരു കീ മാത്രമേയുള്ളൂ റെക്കോർഡ് പോയിന്റർ ഇല്ല അതിനാൽ ഇത് 1 2 വീണ്ടും k വരെയാണ് തുടർന്ന് വീണ്ടും ചിൽഡ്രൻ ഉണ്ട് ഇത് വീണ്ടും അതേ ആശയം പിന്തുടരുന്നു തുടങ്ങിയവ പക്ഷേ ഇതിന് അനുബന്ധ റെക്കോർഡ് പോയിന്റർ ഇല്ല അതിനാൽ ഈ റെക്കോർഡ് പോയിന്റർ ഇന്റെർണൽ നോഡിനുള്ളിൽ പരിപാലിക്കുന്നില്ല അതിനാൽ ഈ കീകൾ യഥാർത്ഥ സെർച്ച് കീകളാകാൻ പാടില്ല എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് കാരണം ഇത് ഒരു യഥാർത്ഥ സെർച്ച് കീ ആണെങ്കിൽ റെക്കോർഡ് പോയിന്റർ ഉണ്ടായിരിക്കണം അതിനാൽ ഇത് ഒരു യഥാർത്ഥ സെർച്ച് കീ ആണെങ്കിൽപ്പോലും ഈ യഥാർത്ഥ സെർച്ച് കീകൾ ലീഫ് ലെവലിൽ മാത്രമേ സംഭരിക്കാവൂ ഇത് ഒരു യഥാർത്ഥ സെർച്ച് കീ ആയിരിക്കില്ല കാരണം ഒരു കീയും സ്റ്റോർ ചെയ്തിട്ടില്ല ഒരു റെക്കോർഡ് പോയിന്ററും സ്റ്റോർ ചെയ്തിട്ടില്ല ഇത് ഒരു സെർച്ച് കീ അല്ല ഇതിനെ ലളിതമായി കീ റ്റു ഇൻഡക്സ് എന്ന് വിളിക്കാം അതിനാൽ ഇവ ഡാറ്റാബേസിൽ നിലവിലുള്ള യഥാർത്ഥ കീകളല്ല ഇത് ഡാറ്റാബേസിൽ നിലവിലുള്ള യഥാർത്ഥ കീകൾ ആയിരിക്കില്ല ഇവ കീ റ്റു ഇൻഡക്സ് മാത്രമാണ് അതിനാൽ അത് ബി ട്രീയും ബി ട്രീയും B tree തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസമാണ് ഇപ്പോൾ വീണ്ടും മറ്റെല്ലാം ബി ട്രീ പോലെ തന്നെ തുടരുന്നു അതിനാൽ ഇത് സന്തുലിതമാണ് എല്ലാം ലീഫിൽ ആണ് ഉള്ളത് അത് ഒരു ഓർഡറിലുമാണ് അതിന് തീറ്റ എന്ന ഒരു ഓർഡർ ഉണ്ടായിരിക്കാം അതിനാൽ അതിനർത്ഥം ഇതിന് അതേ കാര്യത്തിന്റെ മുതൽ മുതലായ കീകളും ഉണ്ടാകും ഇപ്പോൾ ഒരു ബി ട്രീ അല്ലെങ്കിൽ ബി ട്രീയുടെ B tree ഓർഡർ എങ്ങനെയാണ് ഒരു ബി ട്രീ അല്ലെങ്കിൽ ബി ട്രീയുടെ B tree ഓർഡർ എങ്ങനെ കണക്കുകൂട്ടാം അതിനാൽ ഇവ ഡിസ്ക് അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പനയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു അതിനാൽ ഡിസ്ക് അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപ്പന എവിടെയാണ് വരുന്നത് ഓർഡർ എങ്ങനെ കണക്കുകൂട്ടാം എന്നിടത്താണ് ഡിസ്ക് അടിസ്ഥാനമാക്കിയുള്ള രൂപകൽപന വരുന്നത് ഇത് അവിടെയുള്ള ഡിസ്കിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അഥവാ OS ന് ഡിസ്കിൽ നിന്ന് എല്ലാം ആക്സസ് ചെയ്യാൻ കഴിയില്ലെന്ന് അതിന് ഒരു പേജ് അല്ലെങ്കിൽ ബ്ലോക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ ഇതിനെ ഡിസ്ക് പേജ് അല്ലെങ്കിൽ ബ്ലോക്ക് എന്ന് വിളിക്കുന്നു അതിനാൽ ഡിസ്ക് പേജ് Disk അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് 4KB ഡാറ്റ ആണെന്ന് കരുതുക അതിനാൽ ഇതിന് ഒരു ബൈറ്റ് ഡാറ്റ മാത്രം ആക്സസ് ചെയ്യാൻ കഴിയില്ല ഇത് ഡിസ്കിൽ നിന്ന് മെയിൻ മെമ്മറി വരെയുള്ള 4KB ഡാറ്റ പൂർണമായും ആക്സസ് ചെയ്യണം തുടർന്ന് 1 ബൈറ്റ് അല്ലെങ്കിൽ എത്ര ബൈറ്റുകൾ ആണോ ആവശ്യമുള്ളത് അത്രയും പ്രോസസ്സ് ചെയ്യണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നമ്മൾ കണ്ട ഫിസിക്കൽ ഡിസൈനിന്റെ പ്രധാന ഉദ്ദേശം ഡിസ്ക് ആക്സസുകളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് റാൻഡം ഐഒഎസിന്റെ എണ്ണം അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഐഒഎസിന്റെ എണ്ണം ആണ് പ്രധാനം അതിനാൽ മെയിൻ മെമ്മറിയിൽ ചെലവഴിച്ച സമയം എത്രയാണെന്നത് പ്രശ്നമല്ല പക്ഷേ അൽഗോരിതം റീഡ് ചെയ്തതോ റൈറ്റ് ചെയ്തതോ ആയ ബ്ലോക്കുകളുടെ എണ്ണം ഒപ്റ്റിമൈസ് ചെയ്യുക എന്നതാണ് പ്രധാനം അതായത് ആക്സസ് ചെയ്യപ്പെടുന്ന ബ്ലോക്കുകളുടെ എണ്ണം അതിനാൽ ഒരു പ്രത്യേക പേജ് ഡിസ്കിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടതിനാൽ പേജ് ആക്സസ് ചെയ്യുക എന്നതിന്റെ അർഥം 4KB ഡാറ്റ പൂർണമായും ആക്സസ് ചെയ്യുക എന്നായതിനാൽ ഡിസ്ക് പേജ് പരമാവധി ഡാറ്റ ഉപയോഗിച്ച് പായ്ക്ക് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് അതിനാൽ പരമാവധി എന്നുവച്ചാൽ 4KB ഡാറ്റ പൂർണമായും അഥവാ എത്ര വലിപ്പമുണ്ടെങ്കിലും പേജ് ആക്സസ് ചെയ്തുകഴിഞ്ഞാൽ പേജ് മെമ്മറിയിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ പേജിൽ സംഭരിച്ചിരിക്കുന്ന മുഴുവൻ ഡാറ്റയും ഉപയോഗപ്പെടുത്താം മറ്റൊരു ഡാറ്റ പോയിന്റ് കൊണ്ടുവരാൻ മറ്റൊരു ആക്സസ് ആവശ്യമില്ല അതിനാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസ്ക് പേജ് കപ്പാസിറ്റി ഒരു ഡിസ്ക് പേജിന്റെ ഡിസ്ക് പേജ് കപ്പാസിറ്റി സി ബൈറ്റ്സ് ആണെന്ന് കരുതുക അതിനാൽ ആ സി ബൈറ്റുകൾക്കുള്ളിൽ കഴിയുന്നത്ര സെർച്ച് കീകൾ ഇടുന്നതിൽ അർത്ഥമുണ്ട് അതിനാൽ ഒരാൾക്ക് ഈ സി ബൈറ്റ്സ് ആക്സസ് ചെയ്യേണ്ടതുണ്ട് ഒരു സെർച്ച് കീ ആണ് ആക്സസ് ചെയ്തതെങ്കിലും ഈ സി ബൈറ്റ്സ് എന്തുതന്നെയായാലും പൂർണമായും കൊണ്ടുവരണം ആക്സസ് ചെയ്യുന്നു അതിനാൽ ഈ സി ബൈറ്റുകൾക്കുള്ളിൽ കഴിയുന്നത്ര സെർച്ച് കീകൾ നൽകുന്നത് അർത്ഥവത്താണ് ഇപ്പോൾ ഓർഡർ എങ്ങനെ കണക്കുകൂട്ടാം അതിനാൽ ഓർഡർ എന്നാൽ ഉൾകൊള്ളാൻ കഴിയുന്ന കഴിയുന്ന പരമാവധി എണ്ണം കീകൾ ആണ് അഥവാ ഒരു ഡിസ്ക് പേജിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി എണ്ണം സെർച്ച് കീകൾ ഒരൊറ്റ ഡിസ്ക് പേജിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന എണ്ണം ഉപയോഗിച്ച് ഓർഡർ കണക്കാക്കുന്നു അതിനാൽ ഒരൊറ്റ ഡിസ്ക് പേജിൽ ഡിസ്കിന് അനുയോജ്യമായ പരമാവധി അതിനാൽ ഒരൊറ്റ ഡിസ്ക് പേജിൽ ഉൾക്കൊള്ളാനാവുന്ന പരമാവധി എണ്ണം അങ്ങനെയെങ്കിൽ അത് എങ്ങനെ കണക്കുകൂട്ടാം ഡിസ്ക് പേജ് കപ്പാസിറ്റി സി ബൈറ്റുകളാണെന്ന് നമുക്ക് പറയാം ഓർഡർ തീറ്റ ആണെന്ന് നമുക്ക് പറയാം തീറ്റ എന്താണെന്ന് നമുക്ക് കണക്കുകൂട്ടാം ഇത് തീറ്റയാണ് ഒരു പോയിന്റർ സ്റ്റോർ ചെയ്യാൻ കീയ്ക്കു ഗാമ ബൈറ്റ്സ് ആവശ്യമാണെന്ന് കരുതുക പോയിന്റർ തൊട്ട് ഡാറ്റ ഉള്ളത് എവിടെയാണോ അത് വരെ കുറച്ച ഈറ്റ ബൈറ്റ്സ് ആവശ്യമാണ് അതിനാൽ ഒരു ബി ട്രീയ്ക്ക് B tree സംഭവിക്കുന്നത് ഇതാണ് അതിനാൽ ഓർഡർ ആണെങ്കിൽ അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന കീകൾ ഉണ്ടാകും അതിനാൽ മാത്രവുമല്ല ഒരു ബി ട്രീയ്ക്ക് B tree റെക്കോർഡ് പോയിന്ററുകൾ ഉണ്ടായിരിക്കുന്നതല്ല അതിനാൽ ഒരു ബി ട്രീയ്ക്കായി നമ്മൾ ഇത് ചെയ്യുന്നു റെക്കോർഡ് പോയിന്റർ ഇല്ല പക്ഷേ ചൈൽഡ് പോയിന്ററുകൾ ഉണ്ട് അത് ആണ് അതിനാൽ ഇത് ഒരു ബി ട്രീയുടെ B tree നിശ്ചിത സമവാക്യമാണ് അതിനാൽ നിങ്ങൾ ഇത് കണക്കുകൂട്ടിയാൽ ഇനിപ്പറയുന്ന രീതിയിൽ വരും അതാണ് തീർച്ചയായും ഒരാൾക്ക് അതിന്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കണം അത് ഉൾകൊള്ളാൻ കഴിയുന്ന പരമാവധി സംഖ്യയാണ് ഒരു ബി ട്രീയുടെ B tree ഓർഡർ കണക്കുകൂട്ടുന്നത് ഇങ്ങനെയാണ് ഒരു ബി ട്രീയ്ക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ അധികം ഉണ്ടെന്നത് ഒഴിച്ചാൽ അതേ കാര്യം തന്നെ ചെയ്യാൻ കഴിയും അതിനാൽ ഒരു ഉണ്ട് കീകൾ സൂക്ഷിക്കാൻ ആവശ്യമായ ബൈറ്റുകളുടെ എണ്ണമാണിത് തുടർന്ന് റെക്കോർഡ് പോയിന്ററുകൾ ഉണ്ട് അതിനാൽ ഒരാൾ ഇത് ചേർക്കേണ്ടതുണ്ട് ചൈൽഡ് പോയിന്ററുകൾക്കായി അതിനാൽ ഇത് പിന്നീട് ഇങ്ങനെയായി മാറുന്നു അതിനാൽ ഒരു ബി ട്രീയുടെ B tree ഓർഡർ എങ്ങനെ കണക്കുകൂട്ടാം എന്നതിനെക്കുറിച്ച് നമ്മൾ ഓർക്കേണ്ട രണ്ട് സുപ്രധാന സൂത്രവാക്യങ്ങളാണ് ഇവ നമ്മൾ ഈ നിഗമനത്തിലെത്തിയത് എങ്ങനെയാണ് ഒരു ഡിസ്ക് സ്പേസ് പൂർണമായും റീഡ് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് അതിനാൽ ഒരു ഡിസ്ക് സ്പെയ്സിനുള്ളിൽ കഴിയുന്നത്ര ഡാറ്റ പായ്ക്ക് ചെയ്യുന്നത് അർത്ഥവത്താണ് കാരണം അതാണ് എന്തുതന്നെയായാലും ഒഎസ് റീഡ് ചെയ്യുന്നത് മാത്രവുമല്ല ഡിസ്ക് ആക്സസ്സുകൾ ചെലവേറിയ പ്രവർത്തനങ്ങളാണ് അതിനാൽ ഡിസ്ക് ആക്സസ് ഓപ്പറേഷൻസിന്റെ എണ്ണം കുറയ്ക്കുന്നതിൽ അർത്ഥമുണ്ട് ഒരിക്കൽ ഒരു ഡിസ്ക് ഒരിക്കൽ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരിക്കൽ ഒരു ഡിസ്ക് സ്പേസ് ആക്സസ് ചെയ്യുമ്പോൾ കഴിയുന്നത്ര സി ബൈറ്റുകൾ പായ്ക്ക് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് തീറ്റയാണ് ചെയ്യാവുന്ന പരമാവധി കീകൾ എങ്കിൽ ഈ രണ്ട് സമവാക്യങ്ങളും തീറ്റ എങ്ങനെ കണ്ടെത്താം എന്നതിന് ഒരു മാർഗം നൽകുന്നു അത് എങ്ങനെ ചെയ്യാം എന്നതിന്റെ ഒരു ലളിതമായ ഉദാഹരണം നമുക്ക് എടുക്കാം നമുക്ക് ഈ ഉദാഹരണം കംബ്യുട്ട് ചെയ്യാം അഥവാ ഒരു പേജ് സൈസ് ഉണ്ട് സാധാരണ പേജ് സൈസിന്റെ ഓർഡർ 4KB 8KB എന്നിങ്ങനെയാണ് നമുക്ക് 4KB എന്ന് പറയാം അതിനാൽ ഇത് 4 കെബി വരുന്നു അതായത് പേജ് സൈസ് കീകൾ 8 ബൈറ്റുകൾ എടുക്കുന്നുവെന്ന് നമുക്ക് പറയാം അതുപോലെ പോയിന്ററുകൾക്ക് 4 ബൈറ്റുകൾ എടുക്കുമെന്ന് കരുതുക ഇതാണ് സ്ഥിതി എന്ന് നമുക്ക് അനുമാനിക്കാം ഇപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തും ബി ട്രീക്ക് B tree അവിടെയുള്ള ഫോർമുല ഉപയോഗിക്കാം അതിനാൽ ഇതാണ് ശേഷി അതിനാൽ ഒരാൾ ഇത് കണക്കാക്കുകയാണെങ്കിൽ ബി ട്രീക്ക് B tree ആയിരിക്കെ ഇത് 170 ആയി വരും ഇപ്പോൾ ഇവിടെ എനിക്ക് ഒരു പ്രധാന കാര്യം ഹൈലൈറ്റ് ചെയ്യാനുണ്ട് ഒരു ബി ട്രീയുടെ B tree ഓർഡർ ഒരു ബി ട്രീയുടെ ഓർഡറിനേക്കാൾ കൂടുതലാണെന്ന് നിങ്ങൾക്കു കാണാൻ കഴിയും അതിനാൽ ഈ പ്രത്യേക ഉദാഹരണത്തിൽ ഇത് 170 നു എതിരായി 127 ആണ് ഇടയിലുള്ളത് അതിനാൽ ഒരു പ്രത്യേക നോഡിന് ഒരു ബി ട്രീയേക്കാൾ ഒരു ബി ട്രീയ്ക്ക് B tree കൂടുതൽ ഡാറ്റ പായ്ക്കുകൾ ഉണ്ടാകാം അതിനാൽ ഒരു ബി ട്രീയുടെ ഉയരത്തേക്കാൾ ഒരു ബി ട്രീയുടെ B tree ഉയരം കുറവായിരിക്കുമെന്നും ഇത് അർത്ഥമാക്കുന്നു കാരണം ഒരേ അളവിലുള്ള ഡാറ്റ ആണെന്ന് അനുമാനിച്ചാൽ ഒരു നോഡിനുള്ളിൽ കൂടുതൽ ഡാറ്റ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനാൽ കുറഞ്ഞ അളവിലുള്ള നോഡുകൾ മാത്രമേ ആവശ്യമാകുന്നുള്ളു കൂടാതെ ഈ നോഡിന് ബ്രാഞ്ചിംഗ് ഫാക്ടറും വലുതാണ് അതിനാൽ ബി ട്രീയുടെ B tree ഉയരം കുറവായിരിക്കുമെന്നാണ് ഇത് അർത്ഥമാക്കുന്നത് എന്നിരുന്നാലും ഒരു ബി ട്രീയിൽ സെർച് കീ ലീഫ് ലെവെലിനെക്കാൾ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ലീഫ് ലെവൽ വരെ പോകുമ്പോൾ ഒരു പ്രത്യേക സെർച് കീ വളരെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും ഒരു ബി ട്രീയ്ക്ക് ഒരു മാർഗവുമില്ല കാരണം ഇന്റെര്ണല് നോഡുകളിൽ സെർച് കീ അടങ്ങിയിട്ടില്ല എല്ലാ സെർച് കീയും ലീഫ് ലെവലിൽ മാത്രമേ സംഭരിക്കൂ അതിനാൽ ഒരു ബി ട്രീയിൽ B tree സെർച് കീ കണ്ടെത്താൻ ലീഫ് ലെവൽ വരെ തിരയൽ പ്രോസസ്സ് ചെയ്യേണ്ടതുണ്ട് പൊതുവേ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ബി ട്രീ B tree ലീഫ് ലെവലിൽ വരെ പോകാതെ കണ്ടെത്തുന്ന സെർച് കീകളുടെ എണ്ണം വളരെ കുറവാണ് അതിനാൽ ഡാറ്റാബേസ് പ്രാക്ടീഷണർമാർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഒരു ബി ട്രീ B tree നിർമ്മിക്കുക എന്നതാണ് ബി ട്രീ അല്ല ബി ട്രീ ഇൻഡക്സ് നിർമ്മിച്ചതായി ഒരാൾ കണ്ടെത്തിയാൽ പോലും വാണിജ്യപരമായ ഡാറ്റാബേസുകൾക്കായി നിർമ്മിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ട്രീ B tree ഇൻഡെക്സ് ആണ് കൂടാതെ ഡാറ്റാബേസ് സിസ്റ്റങ്ങളുടെ മറ്റുള്ള ഇമ്പ്ലിമെന്റേഷനും അതിനാൽ ബി ട്രീയാണ് B tree യഥാർത്ഥ നിലവാരം അതിനാൽ ഇതോടെ ബി ട്രീയുടെയും ബി ട്രീയുടെയും B tree കാര്യങ്ങൾ പൂർത്തിയായിരിക്കുന്നു കൂടാതെ ട്രീ ബേസ്ഡ് ഇൻഡെക്സിംഗും പൂർത്തിയായിരിക്കുന്നു ഇൻഡെക്സിംഗിനെക്കുറിച്ച് വളരെ കുറച്ചുകൂടെ കാര്യങ്ങൾ അവശേഷിക്കുന്നു വളരെ രസകരമായ ഒരു തരം ഇൻഡെക്സിംഗിനെക്കുറിച്ച് നമുക്ക് അടുത്തതായി നോക്കാം അതിനെ ബിറ്റ്മാപ്പ് ഇൻഡെക്സിംഗ് എന്ന് വിളിക്കുന്നു അതിനാൽ എന്താണ് സംഭവിക്കുക എന്നാൽ ആട്രിബ്യൂട്ട് ഡൊമെയ്ൻ ഒരു ചെറിയ സംഖ്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അതിനാൽ അത്തരം എല്ലാ വാല്യൂസും സംഭരിക്കുന്നതിന് ഒരു ബിറ്റ്മാപ്പ് അല്ലെങ്കിൽ ഒരു ബിറ്റ് വെക്റ്റർ ഉപയോഗിക്കാം അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ലിംഗഭേദവും ഗ്രേഡും ഉള്ള ഒരു ലളിതമായ പട്ടിക ഉണ്ടെന്ന് കരുതുക ഇത് പുരുഷൻ സി സ്ത്രീ എ സ്ത്രീ സി പുരുഷൻ ഡി പുരുഷൻ എ ഇപ്പോൾ ഈ ലിംഗഭേദം ഓരോന്നിനും വളരെ ചെറിയ ആട്രിബ്യൂട്ട് ഡൊമെയ്ൻ ഉണ്ട് കാരണം അതിൽ ആണും പെണ്ണും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഗ്രേഡും എ ബി സി ഡി മാത്രമേ ഗ്രേഡിൽ അടങ്ങിയിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് എല്ലാം എൻകോഡ് ചെയ്യാൻ ഒരാൾക്ക് ഒരു ബിറ്റ് വെക്റ്റർ ഉപയോഗിക്കാം അതിനാൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണെന്നാൽ പുരുഷന്മാർ ഇനിപ്പറയുന്ന രീതിയിൽ ആണ് ഉള്ളതെന്ന് ഒരാൾക്ക് പറയാൻ കഴിയും അത് 10011 ആണ് എന്തുകൊണ്ടാണ് ഇത് ഒന്ന് ആയത് കാരണം ആദ്യത്തേത് പുരുഷനാണ് രണ്ടാമത്തേത് പുരുഷനല്ല മൂന്നാമത്തേത് പുരുഷനല്ല നാലാമത്തേത് പുരുഷനാണ് അഞ്ചാമത്തേത് പുരുഷനാണ് ഇപ്പോൾ ഒന്ന് എന്നാൽ പുരുഷനാണെന്നത് ശ്രദ്ധിക്കുക 0 എന്നാൽ അത് പുരുഷനല്ല വാല്യൂ എന്താണെന്ന് അത് പറയുന്നില്ല അതിനായി നമുക്ക് ഈ സ്ത്രീ കോഡിംഗും ആവശ്യമാണ് അത് 01100 ആണ് ഇത് ഒരു റീഡന്റന്റ് തിങ് ആയി കാണപ്പെടുന്നുണ്ടെങ്കിലും കാരണം ഇത് കോംപ്ലിമെന്ററി ആണ് കാരണം അതിന് രണ്ട് വാല്യൂസ് മാത്രമേ ഉള്ളൂ അത് A യ്ക്കു സംഭവിക്കില്ല കാരണം A യ്ക്കു 01001 എന്നത് ഉണ്ടാകും B ൽ ഒരു വാല്യൂവും B ൽ ഇല്ല അതിനാൽ ഇതിന് 00000 എന്നത് ഉണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ അത് എ അല്ല എന്നാൽ വാല്യൂ എന്താണെന്ന് അത് പറയുന്നില്ല കൂടാതെ അത് കണ്ടെത്താൻ ഒരാൾ സിയിലേക്ക് പോകണം ഇതാണ് യഥാർത്ഥത്തിൽ സി കൂടാതെ ഡി എന്നത് കേവലം 00010 ആണ് അതിനാൽ ഇത് എങ്ങനെയാണ് ഉപയോഗപ്രദമാകുന്നത് അതിനാൽ ഒരു പ്രത്യേക ക്വയറി എല്ലാ പുരുഷന്മാരെയും കണ്ടെത്തുക ഡി നേടിയ പുരുഷ വിദ്യാർത്ഥികളെ കണ്ടെത്തുക എന്നതാണെന്ന് കരുതുക ഇപ്പോൾ ഇത് M ന്റെ ബിറ്റ് മാപ്പ് എടുത്ത് ഡി യുടെ ബിറ്റ്മാപ്പോടൊപ്പം ഒരു ബിറ്റ് വൈസ് AND ചെയ്യുക എന്നത് മാത്രമാണ് ഒരാൾ ചെയ്യേണ്ടത് അതിനാൽ അത് ചെയ്യാൻ എളുപ്പമാണ് ചെയ്യുക ഒരിക്കൽ അത് ചെയ്തുകഴിഞ്ഞാൽ ഉത്തരം ആയി വരുന്നത് അതിനാൽ M ന്റെ ബിറ്റ്മാപ്പ് ഇതാണ് D യുടെ ബിറ്റ്മാപ്പ് ഇതാണ് ഒരിക്കൽ അങ്ങനെ ചെയ്തുകഴിഞ്ഞാൽ ഇതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അതിനാൽ പുരുഷനായ നാലാമത്തെ വിദ്യാർത്ഥിയാണ് ഡി നേടിയത് അതിനാൽ ബിറ്റ്മാപ്പ് ഓപ്പറേഷൻസ് പൊതുവെ വളരെ വേഗത്തിലും കൂടുതൽ കാര്യക്ഷമവുമാണ് കാരണം OS അവയെ നല്ല ബൈറ്റ് സൈസ്ഡ് ക്രമത്തിൽ പായ്ക്ക് ചെയ്യുന്നു അതിനാലാണ് ഇതിനു കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇൻഡെക്സിംഗ് സ്കീം പൂർത്തിയാക്കുന്നതിനായി SQL ൽ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് SQL ൽ r ൽ ഇൻഡക്സ് I ഉണ്ടാക്കുക എന്ന് ഒരാൾക്ക് പറയാം അതിനർത്ഥം റിലേഷൻ r ന്റെ ആട്രിബ്യൂട്ട് a ൽ i എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ഇൻഡക്സ് സൃഷ്ടിക്കുക ഉദാഹരണത്തിന് ഇൻഡക്സ് ബി ഉണ്ടാക്കുക എന്ന് ഒരാൾക്ക് പറയാം ബ്രാഞ്ച് ബി എന്ന പേരിൽ ഉള്ള ഇൻഡക്സ് സാധാരണയായി ഒരു ആട്രിബ്യൂട്ട് മാത്രം പരാമർശിക്കുമ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ബി ട്രീ B tree ഇൻഡെക്സ് ആണ് അതിനാൽ ബി ട്രീ B tree ഇൻഡെക്സ് ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലളിതമായി ഡ്രോപ്പ് ഇൻഡക്സ് എന്ന് ഒരാൾക്ക് പറയാം അഥവാ ഇൻഡെക്സ് ഇല്ലാതാക്കാൻ ഇതോടെ ഇൻഡെക്സിംഗിനെക്കുറിച്ചുള്ള ഭാഗം പൂർത്തിയാകുന്നു ഹാഷിംഗ് സ്റ്റാറ്റിക് ഹാഷിംഗ് ഡൈനാമിക് ഹാഷിംഗ് ചില ട്രീ ബേസ്ഡ് ഇൻഡെക്സിംഗ് എന്നിവയെക്കുറിച്ച് നമ്മൾ പഠിച്ചു വളരെയധികം നന്ദി